റിക്വയർമെന്റ്സ് ഓഫ് എ പേറ്റന്റ് അപ്ളിക്കേഷൻ ഇനി നമുക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം പേറ്റന്റിനുള്ള അപേക്ഷ താൽക്കാലികമോ പൂർണ്ണമോ ആയിരിക്കാം താൽക്കാലികവും പൂർണ്ണവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു താൽക്കാലികമായ ഒരു അപേക്ഷയാണ് സമർപ്പിക്കുന്നത് എങ്കിൽ 12 മാസത്തിനകം അനന്തര നടപടികൾ കൈക്കൊള്ളുകയും പൂർണ്ണമാക്കുകയും വേണം ആദ്യം പ്രൊവിഷ്യണൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാൻ നിങ്ങളെ അനുവദിക്കുന്നു എന്നാൽ തുടർ നടപടികൾ കൈക്കൊള്ളുകയും 12 മാസത്തിനകം പൂർണമായ അപേക്ഷ സമർപ്പിക്കുകയും വേണം അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഉള്ള രണ്ടാമത്തെ ആവശ്യകത എന്ന് പറയുന്നത് ഡ്രോയിങുകളുടെ ആവശ്യകതയാണ് നിങ്ങളുടെ കണ്ടുപിടിത്തം ഡ്രോയിങ് വഴി വിശദീകരിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ അപേക്ഷയോടൊപ്പം അത്തരം ഡ്രോയിംഗ് സമർപ്പിക്കുക ആവശ്യമാണ് ഉദാഹരണത്തിന് യന്ത്രങ്ങളുടെ മേഖലയിലുള്ള ഒട്ടുമിക്കവാറും കണ്ടുപിടിത്തങ്ങളും യാന്ത്രിക സംവിധാനങ്ങളും ചലിക്കുന്ന ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നവയായതിനാൽ അവക്ക് ഡ്രോയിംഗ് നിർബന്ധമായും വേണം നിങ്ങൾ അപേക്ഷയോടൊപ്പം ഡ്രോയിംഗ് സമർപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ പ്രൊസിക്യൂട്ട് ചെയ്യുന്ന വേളയിൽ പേറ്റന്റ് കൺട്രോളർക്ക് അത് ആവശ്യപ്പെടാൻ സാധിക്കും പേറ്റന്റിനുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആവശ്യമായിരിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിദേശത്ത് സമർപ്പിച്ചിട്ടുള്ള അപേക്ഷകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആണ് നിങ്ങൾ ഇന്ത്യയിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയും തുടർന്ന് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഇതേ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ പേറ്റന്റ് ഓഫീസിൽ നിങ്ങളുടെ കൈവശമുള്ള അത്തരം അപേക്ഷകളെ കുറിച്ചുള്ള വിവരം ധരിപ്പിക്കുക ആവശ്യമാണ് ഇന്ത്യയിലെ പേറ്റന്റ് ഓഫീസിന് ഇതേ അപേക്ഷയിന്മേൽ മറ്റു രാജ്യങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് അറിയുവാനുള്ള അവകാശം ഉണ്ട് അതിനായി ഫോം 3 പൂരിപ്പിച്ചു കൊണ്ട് രേഖാമൂലമുള്ള ഒരു ഉറപ്പ് അപേക്ഷകൻ നൽകേണ്ടതുണ്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ആവശ്യമായിരിക്കുന്ന നാലാമത്തെ കാര്യം അപേക്ഷയോടൊപ്പം പ്രയോറിറ്റി ഡോക്യുമെൻറ് സമർപ്പിക്കണമെന്നാണ് പ്രയോറിറ്റി ഡോക്യുമെൻറ് എന്ന് പറയുന്നത് വിദേശത്തുള്ള പേറ്റന്റ് ഓഫീസിൽ സമർപ്പിച്ചിട്ടുള്ള ഡോക്യുമെൻറാണ് പേറ്റന്റ് കോർപ്പറേഷൻ ട്രീറ്റി പി സി ടി പ്രകാരമുള്ള സാമ്പ്രദായികമായ അപേക്ഷ സമ്പ്രദായം തുടരുമ്പോൾ പ്രയോറിറ്റി ഡോക്യുമെൻറ് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ പ്രയോറിറ്റി ഡോക്യുമെൻറിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതും നിങ്ങൾ വിവിധ രാജ്യങ്ങളിൽ പ്രവേശിക്കുന്നതും അപ്പോൾ ഏതൊക്കെ പ്രയോറിറ്റി ഡോക്യുമെൻറുകളാണോ കൺവെൻഷൻ ആപ്ലിക്കേഷനിൽ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് അവയുടെയെല്ലാം ഒരു കോപ്പി ഇന്ത്യൻ പേറ്റന്റ് ഓഫീസിലും സമർപ്പിക്കണം അതിനുശേഷം അവിടെ നിന്ന് ഇൻവെൻന്റർഷിപ്പിനെ കുറിച്ചും ഇൻവെൻന്ററെ കുറിച്ചും അദ്ദേഹത്തിൻറെ പേര് രാജ്യം മേൽവിലാസം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ഒരു അറിയിപ്പ് ഉണ്ടാകും അതിനുശേഷം ഇരുപത്തിയാറാം നമ്പർ ഫോമിൽ പവർ ഓഫ് അറ്റോണി ഫയൽ ചെയ്യണം പവർ ഓഫ് അറ്റോണി നൽകുന്നത് ഇൻവെൻന്റർക്ക് പകരക്കാരനായി പേറ്റന്റ് ഏജൻറിനെ അധികാരപ്പെടുത്തുന്നതിനാണ് അതിനു ശേഷം നിശ്ചിത ഫീസ് അടയ്ക്കണം പേറ്റന്റ് അപേക്ഷ നൽകാൻ അധികാരവും അവകാശവും ഉണ്ട് എന്ന് കാണിക്കുന്ന തെളിവുകളും നൽകണം ആദ്യകാലങ്ങളിൽ അപേക്ഷയോടൊപ്പം തന്നെ തെളിവുകളും നൽകണമെന്നായിരുന്നു വ്യവസ്ഥ ഇപ്പോൾ അത് വ്യത്യാസപ്പെടുത്തി യിട്ടുണ്ട് അപ്ലിക്കേഷൻ നൽകിയതിനു ശേഷവും നിങ്ങൾക്ക് തെളിവുകൾ ഹാജരാക്കാവുന്നതാണ് അതായത് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചതിനു ശേഷവും അപേക്ഷ സമർപ്പിക്കുവാൻ നിങ്ങൾക്ക് അധികാരം ഉണ്ട് എന്ന് കാണിക്കുന്ന തെളിവുകൾ നിങ്ങൾക്ക് ഹാജരാക്കാം അവകാശത്തിനു തെളിവ് എന്നുള്ളത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഇൻവെൻന്റർ അവരുടെ കണ്ടുപിടിത്തം വേറൊരാൾക്ക് അസൈൻ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് അദ്ദേഹം ജോലിചെയ്യുന്ന സ്ഥാപനത്തിനോ ആ സ്ഥാപനത്തിൻറെ ഉടമസ്ഥനോ അത് കൈ മാറുകയാണെങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അവകാശ കൈമാറ്റത്തിൻറെ രേഖ ഹാജരാക്കേണ്ടതാണ്